എല്ലാവർക്കും സ്വാഗതം ദുരന്ത മോചനവും മികച്ച രീതിയിലുള്ള പുനർ നിർമ്മിതിയും എന്ന പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം ഈ പ്രഭാഷണത്തിൽൽ നാം അപകടസാധ്യതയെക്കുറിച്ചും ദുരന്തസാധ്യതാ തയ്യാറെടുപ്പിനെക്കുറിച്ചും ശ്രദ്ധ കേന്ദ്രീകരിക്കും അതിൻ്റെ ആവശ്യകതയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയും റിസ്ക് തയ്യാറെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ലഘൂകരണത്തിൽ മാത്രമല്ല നാം തയ്യാറെടുപ്പ് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ റിസ്ക് പെർസെപ്ഷൻ നിർണായക പങ്ക് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയും ക്യോട്ടോ സർവകലാശാലയിലെ ദുരന്ത നിവാരണ ഗവേഷണ സ്ഥാപനത്തിൽ നിന്നും ഡിപിആർഐ ഞാൻ സുഭജ്യോതി സമാദാർ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ അഗ്നിപർവ്വതം പോലുള്ള പ്രകൃതിദുരന്തങ്ങൾ ഉൾപ്പെടെ നിരവധി അപകടങ്ങൾ നമുക്കുണ്ടെന്നറിയാം മാത്രമല്ല ദുരന്തങ്ങളുമായി നേരിട്ട് ബന്ധമില്ലാത്ത മറ്റ് പല അപകടങ്ങളും നമുക്കുണ്ട് നമുക്ക് വിശദമായിനോക്കാം നമുക്ക് പുകവലി അല്ലെങ്കിൽ ജി ഒ ഉണ്ടായിരിക്കാം എന്നിട്ട് ഞങ്ങൾക്ക് ചില അപകടസാധ്യതകളുണ്ട് നിങ്ങൾ പുകവലിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം ശ്വാസകോശ അർബുദം ബാധിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടെങ്കിൽ പാവപ്പെട്ടവരെ ബാധിക്കുന്നു ദുർബലരായ ആളുകളെ ബാധിക്കും കൂടാതെ ഭൂകമ്പവും സുനാമിയും ഉണ്ടാകാം നാറ്റിക് ഫുകുഷിമ ഒരു ആണവോർജ്ജ അപകടം തുടങ്ങിയ ചോദ്യങ്ങൾക്ക് കാരണമായേക്കാം അതിനാൽ നമുക്ക് ഈ അപകടസാധ്യതയെല്ലാം ഉണ്ട് ഇത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾനോക്കിയാൽ പ്രത്യേകിച്ചും ഏഷ്യയിൽ ഏഷ്യ ഏറ്റവും വലിയ ഹോട്ട് സ്പോട്ടാണെന്ന് ഉറപ്പാണ് ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദുരന്ത സാധ്യതയുള്ള പ്രദേശമാണ് മറ്റൊരു പ്രദേശവും ദുരന്തത്താൽ ഇത്രയും ബാധിച്ചിട്ടില്ല പ്രകൃതി ദുരന്തങ്ങൾ പ്രത്യേകിച്ചും ഭൂകമ്പത്തെ പരിഗണിക്കുകയാണെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനത്തെയോ വെള്ളപ്പൊക്കം എന്നിവയെ പരിഗണിക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ദുർബലവും ദുരന്ത സാധ്യതയുള്ളതുമായ പ്രദേശമാണ് ഏഷ്യ ഒരു കാര്യം കൂടിയുള്ളത് നഗരവാസികളാണ് ലോകത്തിലെ നഗര ജനസംഖ്യ ആധിപത്യം പുലർത്തുന്നു 1950 ൽ ഇത് മൊത്തം ജനസംഖ്യയുടെ 29 7 മാത്രമാണ് നഗര ജനസംഖ്യ 2030 ൽ ഇത് 61 1 ആയി വളരുമെന്ന് കണക്കാക്കപ്പെടുന്നു അതിനർത്ഥം കൂടുതൽ ആളുകൾ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നുവെന്നും അവർ പലതരം ദുരന്തങ്ങൾക്ക് വിധേയരാകുമെന്നും ആണ് 1950 മുതൽ 2000 വരെയുള്ള ഈ ഗ്രാഫിൽ നിന്നും ഭൂകമ്പം വെള്ളപ്പൊക്കം ചുഴലിക്കാറ്റ് എന്നിവ വര്ധിച്ചുട്ടുള്ളത് മ നസ്സിലാക്കാൻ സാധിക്കും വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റും വർധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഗ്രാഫിലെ ചുവപ്പ് കളർ സൂചിപ്പിക്കുന്നത് ഭൂകമ്പം താരതമ്യേന സമാനമാണ് പക്ഷേ ലോകത്തിലെ വലിയ പ്രകൃതി ദുരന്തം ശരിക്കും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ദുരന്തങ്ങൾ വർദ്ധിക്കുക മാത്രമല്ല സാമ്പത്തിക നഷ്ടവും ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് 1950 മുതൽ 2000 വരെയുള്ള പ്രവണത ഉപയോഗിച്ച് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടങ്ങളോ ഇൻഷ്വർ ചെയ്ത നഷ്ടങ്ങളോ നോക്കാം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഉറപ്പാണ് ഇപ്പോൾ എന്താണ് ട്രെൻഡ് വലിയ ദുരന്തമുണ്ടാകാൻ സാധ്യത കൂടുതലാണ് വലിയ ദുരന്തം 2011 ജപ്പാൻ പോലുള്ള വൻ ദുരന്തങ്ങൾ തീർച്ചയായും വർദ്ധിക്കും പക്ഷേ അത് വളരെ തീവ്രമായിരുന്നു 60 ലും 90 കളിലും ചില ദുരന്തങ്ങൾക്ക് അന്താരാഷ്ട്ര സഹായം നടപ്പിലാക്കി അന്താരാഷ്ട്ര സഹായം 1 3 60 ലും 90 ലെയും ദുരന്തം മൂലമുണ്ടായ സാമ്പത്തിക നഷ്ടം 3 ഇരട്ടി കൂടുതലായിരുന്നു 1 9 ഇൻഷ്വർ ചെയ്ത നഷ്ടം 60 90 കളിൽ ഉയർന്ന നിരക്കിൽ വർദ്ധിച്ചു 116 അത് അതിശയകരമായ കണക്കുകളാണ് അതിനാൽ എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ഈ വസ്തുതകൾ എന്തൊക്കെയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് നൽകിയ ഒരു ചെറിയ ഡാറ്റ മാത്രമാണ് എനിക്ക് വളരെയധികം ഡാറ്റ നൽകാൻ കഴിയും എന്നാൽ സമയം കണക്കിലെടുക്കുമ്പോൾ നാം ചെറിയ ഡാറ്റയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കാം പക്ഷേ ആ ഡാറ്റയിൽ വളരെ വ്യക്തമായി ചില വസ്തുതകൾ പറയുന്നു കൂടുതൽ കൂടുതൽ ആളുകളും കെട്ടിടങ്ങളും വാസസ്ഥലങ്ങളും ഇപ്പോൾ അപകടങ്ങൾക്ക് വിധേയമാണ് ഞങ്ങൾ കൂടുതൽ കൂടുതൽ ജനസംഖ്യയുള്ള നഗരവൽക്കരിക്കപ്പെട്ട പ്രദേശത്തു താമസിക്കുന്നു ഒരു പോക്കറ്റിൽ എന്ന പോലെ കൂടുതൽ ആളുകൾ അപകടത്തിലാകുന്നു അതായത് കൂടുതൽ ആളുകൾ അപകടത്തിനു വിധേയരാകുന്നു ആളുകളുടെ ശേഷി അവരുടെ സവിശേഷതകൾ കെട്ടിട സവിശേഷതകൾ സെറ്റിൽമെന്റ് സവിശേഷതകൾ അത് സംഭവിക്കുന്ന രീതി എറ്റവും വിഷമകരം ലോകമെമ്പാടുമുള്ള ആസൂത്രിതമല്ലാത്ത വികസനം പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ഏഷ്യയിൽ തീർച്ചയായും മുമ്പത്തേതിനേക്കാൾ ആളുകളെ കൂടുതൽ ദുർബലരാക്കുന്നു എന്നത് ഉറപ്പാണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഘടനാപരമായ നടപടികളാണ് എഞ്ചിനീയറിംഗ് നടപടികൾ പ്രധാനമാണ് പക്ഷേ അത് മതിയാകില്ല നിങ്ങൾക്ക് ഡൈക്കുകൾ പാലങ്ങൾ അണക്കെട്ടുകൾ എന്നിവ നിർമ്മിക്കാൻ കഴിയും എന്നാൽ ആ ഘടനാപരമായ നടപടികൾ പോലുള്ള നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും പക്ഷേ അവ ദുരന്തങ്ങളെ സംരക്ഷിക്കുന്നതിനും ലഘൂകരിക്കുന്നതിനും അടിസ്ഥാന സൌകര്യ വികസനത്തിന് വളരെ ആവശ്യമാണ് എന്നാൽ അത് പര്യാപ്തമല്ല ഒരു മികച്ച ഉദാഹരണം 2011 ജപ്പാൻ അല്ലെങ്കിൽ 1995 ലെ കോബി ഭൂകമ്പം ഇന്ത്യയിലും നമ്മൾ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് അടിസ്ഥാന സൌകര്യ വികസനത്തിനായി ജപ്പാൻ വളരെയധികം നിക്ഷേപം നടത്തുന്നതു പോലെ ഘടനാപരമായ നടപടികളിലൂടെ കമ്മ്യൂണിറ്റികളെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുണ്ട് പ്രകൃതി നമ്മളേക്കാൾ ശക്തമാണ് അതിനാൽ എപ്പോഴെങ്കിലും പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണെങ്കിൽ താമസിക്കാൻ പാടില്ലാത്ത ഇടത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഘടനാപരമായ നടപടികൾ പര്യാപ്തമല്ല അപ്പോൾ നമ്മൾ എന്തുചെയ്യണം നമുക്ക് ആളുകളെ തയ്യാറാക്കണം ആളുകളുടെ അപകടസാധ്യത അവബോധം വർദ്ധിപ്പിക്കണം നമുക്ക് തയ്യാറെടുപ്പ് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് ഒരു വലിയ ദുരന്തമുണ്ടാകുമ്പോൾ ചെയ്യേണ്ട ചെറിയ കാര്യം ഇതാണ് സുനാമി ഉണ്ടാവുകയാണെങ്കിൽ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ മുഴുവൻ നമ്മൾ അവിടെ നിന്നും മാറ്റി താമസിപ്പിക്കേണ്ടി വരും അവരതിഷ്ട്ടപ്പെടുന്നില്ലെങ്കിൽ കൂടിയും നമുക്കതല്ലാതെ വേറെ ഒരു മാർഗമില്ല അതിനാൽ എന്താണ് സംഭവിക്കുന്നത് നാം തയ്യാറെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ജനങ്ങൾക്ക് തയ്യാറെടുപ്പും റിസ്ക് ഗവേണൻസും പ്രോത്സാഹിപ്പിക്കുക അത് ചെയ്യുന്നതിന് നമുക്ക് പലതരം ചെറിയ പ്രതികരണങ്ങളുമുണ്ടാവാം നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതു പോലുള്ള വലിയ പ്രശ്നങ്ങളാവില്ല പ്രളയ ഇൻഷുറൻസ് വാങ്ങാൻ ആളുകളെ പ്രേരിപ്പിക്കാം അല്ലെങ്കിൽ അടിയന്തിര ഘട്ടങ്ങളിൽ ആളുകളെ ഒഴിഞ്ഞു പോകാൻ നമുക്ക് ആവശ്യപ്പെടാം അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജലവിഭവ പരിപാലനത്തിനായി മഴവെള്ള സംഭരണം പോലുള്ള ലളിതമായ സാങ്കേതികവിദ്യകൾ അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി സൌഹൃദ വീട് ഊർജ്ജം ലാഭിക്കുന്ന വീട് ഈ ചെറിയ നടപടികൾ ഓരോ വ്യക്തിയും കൈക്കൊള്ളുക നാം ഒരു അപകടത്തിൽ നിന്നും രക്ഷ നേടാൻ ഹെൽമെറ്റ് ധരിക്കുന്നതുപോലെ നിങ്ങൾ ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ ഇത് ഒരു വലിയ വെല്ലുവിളിയാണ് ഒരു കുടുംബത്തിനോട് പറയുമ്പോൾ അവർ പറയും ശരി എനിക്ക് ഈ സൌരോർജ്ജ സംരക്ഷണ വീട് ചെയ്യാൻ കഴിയും എനിക്ക് സോളാർ പാനൽ ഇടാം പക്ഷെ നമ്മുടെ ശ്രമം വളരെ ചെറുതാണ് ഞാൻ അത് ചെയ്താൽ മാത്രമേ അത് ഈ കമ്മ്യൂണിറ്റിയിലെ തയ്യാറെടുപ്പിനെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ വളരെ ചെറിയ ഒരു കാര്യമായിരിക്കാം ഞാൻ അതെന്തിന് ചെയ്യണം എന്ന് ഓരോ ആളുകളും വിചാരിച്ചാൽ അത് നടക്കില്ല അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് കൂടുതൽ ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് ഒരു ആൾ മാത്രമേ ഹെൽമെറ്റ് ഇടുന്നുള്ളൂ അത് ശരിയല്ല അതിനാൽ ഒരുപാട് ആളുകൾ ഇടുക ചെറുത് ചെറുത് ചെറുത് ചെറുത് ചെറിയ കാര്യങ്ങൾ വളരെ വലിയ കാര്യങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും വളരെ വലിയ ശ്രമം ഭീമാകാരമായ ശ്രമം അതിനാൽ നമുക്ക് ഇനിയും നിരവധി ചെറിയ കാര്യങ്ങൾ ശരിയാക്കാം ഇൻഷുറൻസ് പോലുള്ള നിരവധി കാര്യങ്ങൾ നമുക്കുണ്ട് മഴവെള്ള സംഭരണം പോലെ നമുക്ക് ഇനിയും നിരവധി ചെറിയ സാങ്കേതികവിദ്യകൾ ഉണ്ട് ഈ ചെറിയ സാങ്കേതികവിദ്യകൾ സ്വീകരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് ഒരു ചെറിയ കാര്യം എന്നാൽ ഒരു വലിയ വെല്ലുവിളി പ്രാദേശിക സർക്കാർ നമുക്കായി എന്തുചെയ്യും എന്ന് നോക്കാം ഉദാഹരണത്തിനായി മുനിസിപ്പൽ അതോറിറ്റി നോക്കാം ഒരു നിശ്ചിത സമയത്ത് ജനങ്ങളെ ഒഴിപ്പിക്കണം അല്ലെങ്കിൽ ഖരമാലിന്യങ്ങൾ കൈകാര്യം ചെയ്യണം നിയമങ്ങൾ നിർമ്മിക്കണം അടിയന്തിര സമയത്ത് ഭക്ഷണം സൂക്ഷിക്കണം അല്ലെങ്കിൽ ജനങ്ങൾക്കായി അതിജീവന കിറ്റ് അല്ലെങ്കിൽ ആകസ്മിക കിറ്റ് കരുതുന്നു ഇപ്പോൾ ഒരു പ്രാദേശിക സർക്കാർ അപകടസാധ്യതയുള്ള ആളുകളോട് അവരുടെ അപകടസാധ്യത കുറയ്ക്കുന്നതിനും ദുരന്ത തയ്യാറെടുപ്പ് സാങ്കേതികവിദ്യ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും അവരോട് പറയുന്നു ഇതൊരു ലളിതമായ റിസ്ക് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ആണെന്ന് നമുക്കറിയാം പക്ഷേ ഇത് എല്ലായ്പ്പോഴും എളുപ്പമല്ല പരമ്പരാഗത റിസ്ക് തയ്യാറെടുപ്പ് സംവിധാനം അല്ലെങ്കിൽ സിസ്റ്റം അവർ കരുതുന്നത് ആളുകൾക്ക് വിവരങ്ങൾ നൽകുന്നത് മാത്രം മതിയെന്നാണ് അടിയന്തിര ഘട്ടങ്ങളിൽ ആളുകളെ ഒഴിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് മാത്രം മതി എന്നാൽ അത് എല്ലായ്പ്പോഴും പര്യാപ്തമല്ല ഈ മേഖലയിലെ ആളുകൾ ലോകമെമ്പാടുമുള്ള വിവിധ ഗവേഷണങ്ങളിൽ നിന്ന് കാണിക്കുന്നത് ധാരാളം പണം ചെലവഴിച്ചതിന് ശേഷം ധാരാളം പ്രോജക്ടുകൾ പ്രവർത്തിപ്പിച്ച് ധാരാളം സമയം ചെലവഴിച്ചതിലൂടെയുള്ള കണ്ടെത്തൽ ദുരന്തത്തിനെതിരെ തയ്യാറെടുക്കാനുള്ള ജനങ്ങളുടെ പ്രവണത അത് ശരിക്കും കുറവാണ് എന്തുകൊണ്ടാണ് ആളുകൾ തയ്യാറാകാത്തത് ഇതാ ഒരു നല്ല ഉദാഹരണം എന്താണ് അപകടസാധ്യത എന്ന് നിങ്ങൾ കരുതുന്നു ആളുകൾ ഇപ്പോഴും അപകടകരമാണെന്ന് കരുതുന്നില്ലായിരിക്കാം ഇത് പോലെ ബോട്ടിന്റെ മറുവശത്തുള്ള മറ്റൊരാൾ ഈ ബോട്ട് മുങ്ങിപ്പോയിട്ടും അയാൾക്ക് അപകടമില്ലെന്ന് കണക്കാക്കപ്പെടുന്നു അയാൾ മറുവശത്തായതിനാൽ ഇവിടെ മറ്റൊരു വ്യക്തിയെ നോക്കാം നിങ്ങളുടെ കുടയുടെ 40 എന്തിനാണ് മൂടുന്നതെന്ന് ഈ സ്ത്രീ ചോദിക്കുന്നത് എനിക്ക് ഒരു അടിയന്തര സന്ദേശം ലഭിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു 40 മഴയ്ക്ക് സാധ്യതയുണ്ട് നേരത്തെയുള്ള മുന്നറിയിപ്പിന്റെ സന്ദേശത്തെ അദ്ദേഹം ഈ രീതിയിൽ വ്യാഖ്യാനിച്ചു അതിനാൽ ആളുകൾ വ്യാഖ്യാനിക്കുന്ന രീതിയിലും ആളുകൾ ആഗ്രഹിക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ട് ശരിയാണ് തയ്യാറെടുപ്പിനെക്കുറിച്ച് ആളുകൾക്ക് വ്യത്യസ്തമായ ഓറിയന്റേഷനുകൾ ഉണ്ടെന്ന് മാത്രമല്ല ആളുകൾ കുഴപ്പമില്ലെന്നും കരുതുന്നു എനിക്ക് ദുരന്തത്തെക്കുറിച്ച് അറിയാം എന്റെ പ്രദേശം എനിക്ക് നന്നായി അറിയാം എപ്പോൾ വെള്ളപ്പൊക്കം വരും സുനാമി വരും എനിക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാം എന്നെ വിലകുറച്ച് കാണരുത് യഥാർത്ഥത്തിൽ ആളുകൾക്ക് തങ്ങളെല്ലാം അറിയാമെന്ന അറിവിനെ അമിതമായി വിലയിരുത്തുന്നു അല്ലെങ്കിൽഅവർ തയാറാണെന്ന് ആളുകൾ കണക്കാക്കുന്നു വെള്ളപ്പൊക്കവും ഭൂകമ്പവും സംഭവിച്ചാലും സുരക്ഷിതനാകും കാരണം ഞാൻ അത്ര ദുർബലനല്ല ഞാൻ വേണ്ടത്ര തയ്യാറാണ് എന്റെ വീട് നല്ലതാണ് എന്റെ വീട് മൂന്ന് നിലകളാണ് ഒരു വെള്ളപ്പൊക്കവും എന്നെ ബാധിക്കില്ല എന്നും അല്ലെങ്കിൽ ഒരുപക്ഷേ ആളുകൾ വിചാരിക്കുന്നത് ഇത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമാണ് ആളുകൾ പലപ്പോഴും മുനിസിപ്പൽ അതോറിറ്റിയെ പ്രളയം സംഭവിക്കുന്നതിന് കുറ്റപ്പെടുത്തുന്നു വെള്ളപ്പൊക്കം പ്രാദേശിക സർക്കാരിന്റെ പ്രശ്നമാണെന്ന് അവർ പറയും വെള്ളപ്പൊക്ക അപകടത്തിൽ നിന്ന് എന്നെത്തന്നെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയല്ല എന്നെ സംരക്ഷിക്കേണ്ടത് പ്രാദേശിക സർക്കാരിന്റെ കടമയോ ഉത്തരവാദിത്തമോ ആണ് അതിനാൽ ഈ ഘടകങ്ങൾ യഥാർത്ഥത്തിൽ ആളുകളുടെ അപകടസാധ്യതയെ അല്ലെങ്കിൽ അപകടസാധ്യത കുറയ്ക്കുന്ന മറ്റ് പല ഘടകങ്ങളും ഉണ്ടാകാം ഇവയൊക്കെ ഒടുവിൽ തയ്യാറെടുപ്പിന് പ്രതികൂലമായി ബാധിക്കുന്നു പ്രതിരോധത്തിനും തയ്യാറെടുപ്പിനുമായി കൂടുതൽ പണം നിക്ഷേപിക്കേണ്ടതുണ്ടെന്ന് ചില ഡാറ്റകൾ ഇവിടെ കാണാം നിലവിലെ സ്ഥിതി പരിശോധിച്ചാൽ അത് തികച്ചും വിപരീതമാണ് അടിയന്തിര പ്രതികരണത്തിനായി നാം കൂടുതൽ പണം ചെലവഴിക്കുന്നു പ്രതിരോധത്തിലും തയ്യാറെടുപ്പിലും നമ്മൾ വളരെ കുറച്ച് പണം ചെലവഴിക്കുന്നു അതിനാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല അതിനാൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ദുരന്ത തയ്യാറെടുപ്പ് പര്യാപ്തമല്ല ആളുകൾ കൂടുതലാണ് ദുരന്തനിവാരണത്തിനായി നാം കൂടുതൽ പണം ചെലവഴിക്കുന്നു ആളുകൾ തയ്യാറെടുപ്പിനായി പണം ചെലവഴിക്കാൻ തയ്യാറല്ല അതിനാൽ തയ്യാറെടുപ്പിനായി പണം ചെലവഴിക്കുന്നതിൽ സർക്കാരും പരാജയപ്പെടുന്നു ജനങ്ങൾക്ക് അത് ചെയ്യാൻ പ്രോത്സാഹനം ലഭിക്കുന്നുമില്ല മാത്രമല്ല വികസ്വര രാജ്യങ്ങളിൽ പ്രോ ആക്ടീവ റിസ്ക് ഫിനാൻസിംഗ് കുറവാണ് ഉപയോഗിക്കുന്നത് ഇത് കാണിക്കുന്നത് ദുരന്തത്തിനു മുമ്പുള്ള ധനസഹായം വളരെ കുറവാണ് വികസ്വര രാജ്യങ്ങളിലെ പ്രാദേശിക സർക്കാരോ ദേശീയ സർക്കാരോ വളരെ കുറച്ച് പണം മാത്രമേ ചെലവഴിക്കുന്നുള്ളൂ അതേസമയം അടിയന്തരാവസ്ഥയിൽ നമ്മൾ കൂടുതൽ പണം ചിലവഴിക്കുന്നു അതിനാൽ സമുദായങ്ങളിൽ വർധിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ദുരന്ത തയ്യാറെടുപ്പാണ് പുനസ്ഥാപനം നടക്കുന്നില്ല ഇത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ദുരന്തത്തിനെതിരെ തയ്യാറെടുക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് വെല്ലുവിളിയാണ് അതിനാൽ പ്രാദേശിക ഗവൺമെൻറ് മുഖാന്തരം ഈ റിസ്ക് ആശയവിനിമയങ്ങൾ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും ഒരു വെള്ളപ്പൊക്കം വരുന്നുവെന്ന് പ്രാദേശിക സർക്കാർ ജനങ്ങളോട് പറയാൻ ശ്രമിക്കുന്നു അതിനാൽ വെള്ളപ്പൊക്കം വരുന്നു നിങ്ങൾ അപകടത്തിലാണ് നിങ്ങളുടെ കുടുംബത്തിന് അപകടമുണ്ട് ദയവായി ദയവായി ദയവായി സ്ഥലം മാറുക റിസ്ക് എടുക്കരുത് നിങ്ങളോട് പറഞ്ഞ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുക ടിവി റേഡിയോ ഇൻറർനെറ്റ് തുടങ്ങിയ സമൂഹമാധ്യമങ്ങളിലൂടെ പത്രത്തിലൂടെയും ഈ സന്ദേശം ജനങ്ങൾക്ക് നൽകി എന്നാൽ ഈ വ്യക്തി കാര്യമാക്കുന്നില്ല അവൻ ശ്രദ്ധിക്കുന്നില്ല അയാൾക്ക് അപകടസാധ്യതയുണ്ട് പത്രം വായിക്കുമ്പോൾ അവൻ വെള്ളപ്പൊക്കം ആസ്വദിക്കുന്നു അവൻ അത് കാര്യമാക്കുന്നില്ല അതിനാൽ ഇത് ശരിക്കും വെല്ലുവിളിയല്ലേ ഇത് വളരെ സാധാരണമായ ഒരു സാഹചര്യമാണ് ഇത് വളരെ അസാധാരണമായ ഒരു സാഹചര്യമല്ല അവരോട് പറയുമ്പോൾ ആളുകൾ അത് ചെയ്യുന്നില്ല എന്നത് വളരെ സാധാരണമായ ഒരു സാഹചര്യമാണ് തയ്യാറാവാൻ അവരോട് പറയുന്നു അവിടെനിന്ന് ഒഴിയാനും പറഞ്ഞു അപ്പോൾ ഈ വ്യക്തി തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഇത് 50 കിലോമീറ്ററല്ല 50 സെന്റിമീറ്ററാണ് അവൻ വെള്ളത്തിൽ മുങ്ങി അവന്റെ പ്രദേശം വെള്ളത്തിൽ മുങ്ങി അതിനാൽ വലിയ വെല്ലുവിളി അറിവ് അപകടകരമാകുന്നത് ചിലപ്പോൾ അവർ സമ്മതിക്കുന്നു ശരി അവർക്ക് അപകടമുണ്ടെന്ന് പക്ഷേ അവർ സമ്മതിക്കാത്ത പല തവണ വളരെ അനിശ്ചിതത്വത്തിലാണ് കൂടാതെ അവർ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയാൽ എന്താണ് ചെയ്യാൻ സാധിക്കുക ചിലപ്പോൾ ജനങ്ങൾ സമ്മതിക്കും ഞാൻ ഇവിടെ നിന്ന് മാറി താമസിച്ചാൽ എനിക്ക് പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാദിക്കും ദുരന്ത അപകടം കുറക്കുവാനും സാധിക്കും ചിലപ്പോൾ ജനങ്ങൾ ലഘൂകരണ പ്രവർത്തനങ്ങളെയും തയ്യാറെടുപ്പിനെയും വെല്ലുവിളിക്കുന്നത് ഇതൊക്കെ ചെയ്താൽ ഞാൻ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചു കൊണ്ടാണ് അപകടം എന്താണെന്നും അത് എങ്ങനെ പരിഹരിക്കാമെന്നുമുള്ള അറിവാണ് സമ്മതം അതൊരു വെല്ലുവിളിയുമാണ് അതിനാൽ അപകടസാധ്യതയുള്ള സാഹചര്യത്തിൽ എല്ലായ്പ്പോഴും ചോദ്യമുണ്ട് ആരാണ് എന്താണ് അപകടസാധ്യത എത്രത്തോളം അപകടസാധ്യതയുണ്ട് എന്തുകൊണ്ട് അപകടകരമാണ് ശരിയാണ് അതുപോലെ തയ്യാറെടുപ്പിലും ജോലിയുടെ മുൻഗണന എന്താണ് ഞാൻ എന്തുചെയ്യണം എന്താണ് ഫലപ്രദമായത് അത് പ്രവർത്തിക്കുമോ എന്റെ അപകടസാധ്യത കുറയ്ക്കുന്നതിന് എന്നെത്തന്നെ സംരക്ഷിക്കാൻ പലായനം ചെയ്യും ആരാണ് ഇത് ചെയ്യുന്നത് ശരി ഞാൻ മഴവെള്ള സംഭരണം നടത്തുമെന്ന് ഞാൻ പറഞ്ഞാൽ അത് എന്റെ മഴവെള്ള സംഭരണം നടത്താനുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ സർക്കാർ അത് ചെയ്യും എപ്പോഴാണ് ഇത് ചെയ്യുന്നത് ആരാണ് ഈ ഉത്തരവാദിത്തവും താൽക്കാലിക ചോദ്യങ്ങളും ഏറ്റെടുക്കുക അതിനാൽ ദുരന്ത തയ്യാറെടുപ്പ് പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇവ വളരെ സാധാരണമായ ചോദ്യങ്ങളാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റയുണ്ട് എന്താണ് റിസ്ക് ആളുകൾ അപകടസാധ്യത വിശ്വസിക്കാത്തത് എന്തുകൊണ്ട് ഒരു ബ്രിട്ടൻ റോയൽ സൊസൈറ്റി 1982 ൽ റിസ്ക് അസസ്മെൻറിനെക്കുറിച്ച് ഒരു വൈറ്റ് ബുക്ക് പ്രസിദ്ധീകരിച്ചു 1983 ൽ ഇത് വീണ്ടും പരിഷ്കരിച്ചു അവർ യഥാർത്ഥത്തിൽ അന്താരാഷ്ട്രതലത്തിൽ പ്രകീർത്തിക്കപ്പെടുന്ന പ്രൊഫെസ്സർസിനോട് ആവശ്യപ്പെട്ടു അപകടം എന്താണ് എന്ന് നിർവചിക്കാൻ എന്നാൽ ഈ പേപ്പറിലെ പരിഹാസ്യമായ കാര്യം എന്താണെന്നത് ഈ റിപ്പോർട്ട് സമൂഹത്തിന്റെ റിപ്പോർട്ടല്ലെന്ന് അവർ പറയാത്ത നിരാകരണം നിങ്ങൾക്കറിയാമെന്ന് അവർ പറയുന്നു പ്രകടിപ്പിച്ച കാഴ്ചപ്പാടുകൾ രചയിതാക്കളുടെ മാത്രം അഭിപ്രായമാണ് അതിനാൽ ഞാൻ ഇവിടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല സമൂഹം പറയുകയാണ് അപകടസാധ്യതയെക്കുറിച്ച് കൂട്ടായ വീക്ഷണമൊന്നുമില്ല അതിനാൽ ഇതാണ് അപകടസാധ്യത എന്ന് നിങ്ങളോട് പറയാൻ പോകുന്നില്ല ഇത് ഒരു സംവാദ വേദി മാത്രമാണ് എന്താണ് സംഭവിച്ചത് എന്തിനാണ് ഇത്രയധികം അന്താരാഷ്ട്ര ഗവേഷകരെ പ്രൊഫസർമാരെ വിളിച്ചതിന് ശേഷം അവർ പറയുന്നത് ഞങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുന്നില്ല ഇത് ഒരു നിരാകരണമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വിദഗ്ധരുടെയും ശാസ്ത്രജ്ഞരുടെയും ഇടയിൽ അപകടസാധ്യതയെക്കുറിച്ച് അഭിപ്രായവ്യത്യാസം തുടരുന്നു അതിനാൽ ശാസ്ത്രജ്ഞരെന്ന നിലയിൽ യഥാർത്ഥ അപകടസാധ്യത നമുക്കുണ്ടെന്ന് പറയുന്നു അതെന്താണ് 2 തരത്തിലുള്ള അപകടസാധ്യതകൾ ഉണ്ട് ഒന്ന് വസ്തുനിഷ്ഠമായ അപകടസാധ്യത അത് ശാസ്ത്രീയ അപകടസാധ്യതയാണ് മറ്റൊന്ന് തിരിച്ചറിഞ്ഞ അപകടസാധ്യതയാണ് വസ്തുനിഷ്ഠമായ അപകടസാധ്യത ശാസ്ത്രീയ വിലയിരുത്തലുകളിൽ നിന്നാണ് വരുന്നത് അത് ശാസ്ത്രീയ നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കുന്നു തിരിച്ചറിഞ്ഞ അപകടസാധ്യത ഭാവിയിൽ സംഭവിക്കുന്ന അപകടസാധ്യതയെക്കുറിച്ച് മുൻകൂട്ടി അറിയുന്നത് പൊതുവെ അപകടസാധ്യത ഒരു പ്രത്യേക കാലയളവിൽ ഒരു പ്രത്യേക പ്രതികൂല സംഭവത്തിന്റെ സാധ്യത നമുക്കറിയാം അതിനാൽ ഒരു പ്രത്യേക സമയ ചോദ്യത്തിൽ ഒരു പ്രോബബിലിറ്റി ചോദ്യമുണ്ട് അത് നിലവിലുള്ള സാഹചര്യത്തെ വെല്ലുവിളിക്കും അതിനാൽ ഇത് ഒരു പരിണതഫലമാണ് ഇവന്റ് പ്രോബബിലിറ്റിയുമാണ് അപകടസാധ്യത നിർണ്ണയിക്കുന്നു എങ്ങനെ ഒരു അപകടസാധ്യത നിർണ്ണയിക്കും സാധാരണഗതിയിൽ അക്കങ്ങളുടെ അളവുകളിലൂടെ നാം ഏതെങ്കിലും തരത്തിലുള്ള അപകടസാധ്യത നിർണ്ണയിക്കുന്നു ഡോളറിലോ രൂപയിലോ വളരെയധികം ചെലവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു വെള്ളപ്പൊക്കം മൂലം നഷ്ടം പ്രതീക്ഷിക്കുന്നു ഉൽപാദനക്ഷമത നഷ്ടപ്പെട്ടു ഭൂകമ്പം മൂലം അത്രയും തുക അതിനാൽ ഇവ എല്ലായ്പ്പോഴും നമ്മൾ സംഖ്യാ രൂപത്തിൽ പ്രകടിപ്പിക്കുന്നു 5 ബില്ല്യൺ 20 ബില്ല്യൺ 200 ബില്ല്യൺ അല്ലെങ്കിൽ 50 ആളുകൾ മരിച്ചു 100 ആളുകൾ മരിച്ചു അങ്ങനെ സാധ്യതയും വ്യാപ്തിയും പലപ്പോഴും പ്രതികൂല സംഭവമാണ് ഇപ്പോൾ അപകടസാധ്യത കണക്കാക്കൽ എസ്റ്റിമേറ്റ് പരിഷ്കരിക്കണമെങ്കിൽ നാം കൂടുതൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഡാറ്റ ആവശ്യമാണെന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഡാറ്റയില്ലാതെ നമുക്ക് അത് ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ പക്കലുള്ള കൂടുതൽ ഡാറ്റ ഉപയോഗിച്ച് കൂടുതൽ മികച്ചതുമായ എസ്റ്റിമേറ്റുകൾ ഉണ്ടാക്കാം അതിനാൽ അവർ ഇത് വളരെ ലളിതമാക്കുകയാണ് നമുക്ക് ഡാറ്റ ആവശ്യമാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു പക്ഷേ സാധാരണ ജനങ്ങൾ അപകടത്തെ സബ്ജെക്റ്റീവ് റിസ്ക് ആയിട്ടാണ് കണക്കാക്കുന്നത് എന്ന് ഓർക്കുക ദയവായി ആ ഘടകം ദുരന്ത നിവാരണ മാനേജുമെന്റിൽ ഉൾപ്പെടുത്തരുത് അത് അങ്ങനെ തന്നെയാണോ നമുക്ക് നോക്കാം വിടവ് കുറയ്ക്കുക റിസ്ക് മാനേജർക്ക് ശാസ്ത്രീയമായി സത്യമെന്താണെന്നും ആ വിടവ് കുറയ്ക്കണമെന്ന് ആളുകൾ കരുതുന്നത് വളരെ പ്രധാനമാണെന്നും അവർ പറയുന്നു ശാസ്ത്രീയമായി എന്താണ് സത്യമെന്നും അത് എന്തുകൊണ്ട് ശരിയാണെന്നും അവർ കരുതുന്നത് ശരിയല്ലെന്നും നമ്മൾ ജനങ്ങളോട് പറയണം ഉദാഹരണത്തിന് നിങ്ങൾ പുകവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപകടസാധ്യതയുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ മാച്ചോ ആകാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് നിക്കോട്ടിൻ ആവശ്യമാണ് പക്ഷേ ഒരിക്കൽ നിങ്ങൾ പുകവലിച്ചിരുന്നു വളരെ വ്യക്തമായ അപകടസാധ്യതയിലാണ് അല്ലെങ്കിൽ നിങ്ങൾ അപകടസാധ്യതയുള്ള ഈ വ്യക്തിയെപ്പോലെ ഒരു ആഹ്ലാദകരമായ നായകനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അത് കൂടുതലായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപകടസാധ്യതയുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് നിങ്ങളുടെ ധാരണകൾക്കനുസൃതമാണ് പക്ഷേ ശാസ്ത്രീയമായി ഇത് നിങ്ങളുടെ പ്രശ്നമാണെന്ന് പറയാൻ കഴിയും നിങ്ങൾ വാഹനമോടിക്കുകയും സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇതാണ് നിങ്ങളുടെ പ്രശ്നം ഇപ്പോൾ ചോദ്യം ഇത് ഒരു വിനോദമോ അപകടമോ ഭയപ്പെടുത്തുന്നുണ്ടോ ചെറുപ്പക്കാർക്കും വൃദ്ധർക്കും ഇത് രസകരമാണ് ഇത് ചെറുപ്പക്കാർക്കോ വൃദ്ധർക്കോ അപകടമാണ് അതിനാൽ ചെറിയ കുട്ടികളും മുതിർന്നവരുംആർക്കാണ് കൂടുതൽ സാധ്യത സാധ്യതയെക്കുറിച്ചുള്ള വ്യക്തിയുടെ ധാരണകൾ വിനോദമോ അപകടമോ ഏതാണ് ഇപ്പോൾ വരുന്ന ചോദ്യം നമുക്ക് ശരിക്കും അപകടം അളക്കാൻ കഴിയുമോ കെൽവിൻ പ്രഭു എന്നൊരു വ്യക്തി ഉണ്ട് നിലനിൽക്കുന്ന എന്തും അവൻ പറയുന്നു കുറച്ച് അളവിൽ നിലവിലുണ്ട് അതിനാൽ അളക്കാൻ കഴിയും 5 ആളുകളുണ്ടെങ്കിൽ നമുക്ക് 5 ആളുകൾ എന്ന് പറയാൻ കഴിയും അത് നിലവിലുണ്ട് നിലനിൽക്കുന്ന എന്തും കുറച്ച് അളവിൽ നിലനിൽക്കുന്നു ഒരു ഗ്ലാസ് വെള്ളം അതെ നമുക്ക് അത് പറയാൻ കഴിയും അതിനാൽ ശാസ്ത്രീയ നിയമങ്ങൾ സ്ഥിതിവിവരക്കണക്കുകളുടെ ശാസ്ത്രീയ നിയമം എന്നിവ പാലിക്കുന്ന യഥാർത്ഥ വസ്തുനിഷ്ഠമായ അളക്കാവുന്ന അപകടസാധ്യതകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തണം അതിനാൽ സ്ഥിതിവിവരക്കണക്കനുസരിച്ച് നമുക്ക് എത്രത്തോളം അപകടസാധ്യതയുണ്ടെന്ന് പറയാൻ കഴിയും മറ്റൊന്ന് വിദഗ്ദ്ധരല്ലാത്തവർ കണ്ടെത്തിയ ആത്മനിഷ്ഠമാണ് സാംസ്കാരിക റിസ്ക് എന്നൊന്നില്ല ഇത് നിങ്ങളുടെ പ്രശ്നമാണ് പക്ഷേ അതിന് ഒരു ശാസ്ത്രീയതയുണ്ട് ബ്രിട്ടൻ ഗതാഗത വകുപ്പ് അവർ പറയുന്നു അവർക്ക് അപകടസാധ്യത അളക്കാൻ കഴിയും ഇത് വളരെ ലളിതമാണ് അപകട രേഖയെ അടിസ്ഥാനമാക്കി നമുക്ക് ഇത് അളക്കാൻ കഴിയും ഒരു പ്രത്യേക സമയത്തിലും ഒരു പ്രത്യേക റോഡിലും എത്രപേർ മരിക്കുന്നു യഥാർത്ഥ അപകടങ്ങളുടെ അനന്തരഫലങ്ങൾ അപകടസാധ്യത എത്രയാണെന്ന് ആളുകളോട് പറയാനുള്ള ലളിതമായ പാരാമീറ്ററുകളാണ് ഇവ കൂടാതെ ഇത് യഥാർത്ഥ അപകടമാണ് കാരണം നിങ്ങൾ ഊർജ്ജസ്വലനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ അതിന്റെ അനന്തരഫലമാണ് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നമാണ് പക്ഷേ ഈ റോഡ് അപകടമാണെന്ന് ശാസ്ത്രീയമായി നമുക്കറിയാം നിങ്ങൾ ഇത് ചെയ്യരുത് നിങ്ങൾ അപകടത്തിലാണ് സുരക്ഷിതവും സുരക്ഷിതമല്ലാത്തതുമായ റോഡ് അവ വളരെ വ്യക്തമാണ് ഇടത് വശത്ത് അപകടമൊന്നുമില്ലെങ്കിൽ ഈ റോഡ് സുരക്ഷിതമാണ് ഈ റോഡ് സുരക്ഷിതമല്ലെങ്കിൽ ഒരു അപകടം അവിടെ നമുക്ക് കാണാൻ കഴിയും നമുക്ക് ശരിക്കും അപകടസാധ്യത അളക്കാൻ കഴിയുമോ ഇത് ഒരു വലിയ ചോദ്യമാണ് ഈ ചോദ്യങ്ങൾ നമുക്ക് ശരിക്കും അളക്കാൻ കഴിയുമോ വസ്തുനിഷ്ഠമായ അപകടസാധ്യതയും വെല്ലുവിളി തുടരുമെന്ന് ആഗ്രഹിക്കുന്ന അപകടസാധ്യതയും തമ്മിൽ ശരിക്കും തിരിച്ചറിയാൻ കഴിയുമോ നമ്മുടെ അടുത്ത ശ്രേണിയിൽ വസ്തുനിഷ്ഠമായ അപകടസാധ്യതയെയും ആത്മനിഷ്ഠമായ അപകടസാധ്യതയെയും എങ്ങനെ എപ്പോൾ എത്രത്തോളം വേർതിരിച്ചറിയാൻ കഴിയും നമുക്ക് അത് ശരിക്കും ചെയ്യാൻ കഴിയും അതിനാൽ ഇത് തയ്യാറെടുപ്പിനെ എന്ത് എത്രത്തോളം ബാധിക്കും എന്ന് നാംചർച്ച ചെയ്യും വളരെയധികം നന്ദി